ഈ പ്രഭാഷണത്തിൽ ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിന്റെ പ്രതികരണത്തിന്റെ പൊതുവായ രൂപം ഞങ്ങൾ പരിശോധിക്കുകയും പ്രതികരണത്തെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ഓരോ ഭാഗവും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനാൽ ഇതാണ് പരിഹാരം പിന്നെ ഞങ്ങൾ ഹോമോജെനസ് കേസ് എടുത്തു അതിനുള്ള പരിഹാരം പൂജ്യം ഇൻപുട്ടുകളായിരുന്നു അതിനാൽ ഈ ഭാഗം സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോണ്സ് എന്നറിയപ്പെടുന്നു ഇത് നാച്ചുറൽ റെസ്പോൺസാണ് കാരണം സ്റ്റെഡി സ്റ്റേറ്റ് എന്നാൽ എവിടെയെങ്കിലും കാര്യങ്ങൾ മാറുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് സ്റ്റെഡി സ്റ്റേറ്റ് അർത്ഥമാക്കുന്നത് വോൾട്ടേജുകൾ ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കറന്റ് കോൺസ്റ്റന്റാണ് അത് ശരിയാണ് ഇൻപുട്ട് സ്ഥിരമായിരിക്കുമ്പോൾ ഇൻപുട്ടിൽ തന്നെ ടൈം വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ സ്റ്റെഡി സ്റ്റേറ്റ് ടൈം വ്യത്യാസമുള്ള അളവായിരിക്കാം പക്ഷേ ഈ സാഹചര്യത്തിൽ സ്റ്റെഡി സ്റ്റേറ്റ് എന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇതാണ് സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോണ്സ് ഇതാണ് നാച്ചുറൽ റെസ്പോണ്സ് വാസ്തവത്തിൽ നിങ്ങൾക്ക് ഹോമോജിനസ് സമവാക്യം ഉള്ളപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ റെസ്പോണ്സ് മാത്രമേ ഉണ്ടാകൂ ഇത് വലതുവശത്തുള്ള ഫംഗ്ഷൻ ഫോർസിങ് ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നു അതിനാൽ എന്താണ് സംഭവിക്കുന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് വരുന്ന സർക്യൂട്ടിന്റെ ചില സവിശേഷതകൾ ഉണ്ടാകും ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഫോർസിങ് ഫങ്ക്ഷന് D C ആണ് ഇത് സമയത്തിനനുസരിച്ച് ഒരു കോൺസ്റ്റന്റാണ് ഒടുവിൽ സമയത്തിനനുസരിച്ച് പരിഹാരവും കോൺസ്റ്റന് ആകും പക്ഷേ അത് അവിടെ എത്തുന്നതിനുമുമ്പ് പരിഹാരത്തിന്റെ ചില ഭാഗങ്ങളുണ്ട് അത് ശരിക്കും സർക്യൂട്ടിന്റെ ഒരു സ്വഭാവമാണ് ഇവിടെ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഫോർസിങ് ഫങ്ക്ഷന് ഇല്ല കൂടാതെ നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഉണ്ട് അതിൽ മൈനസ് 3 R c ഉണ്ട് നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഉണ്ട് അതിന്റെ സമയ കോൺസ്റ്റന്റാണ് സർക്യൂട്ടിന്റെ ചില സ്വഭാവസവിശേഷതകൾ അത് സർക്യൂട്ടിലെ ഘടകത്തിന് സമാനമാണ് ഈ നാച്ചുറൽ റെസ്പോൺസും സമാനമായിരിക്കും ഇപ്പോൾ ഈ നാച്ചുറൽ റെസ്പോണ്സ് ഫോർസിങ് ഫങ്ക്ഷന് ആശ്രയിച്ചിരിക്കും എന്നാൽ ഈ ഭാഗമാണ് ഒടുവിൽ ഇല്ലാതാകുന്നത് ഇപ്പോൾ സർക്യൂട്ടുകളുടെ ഒരു ക്ലാസ് ഉണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം ആ ക്ലാസിൽ വരും ഇവയെ സ്റ്റേബിൾ സർക്യൂട്ടുകൾ എന്നും ടേബിൾ സർക്യൂട്ടിന് ഈ നാച്ചുറൽ റെസ്പോണ്സ് എല്ലായ്പ്പോഴും ഇപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും സാഹചര്യത്തിലും പരിഹാരം പരിശോധിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഒരു സ്പ്രിംഗ് ഉണ്ടായിരിക്കാം തുടർന്ന് നിങ്ങൾ അത് പ്ലഗ് ചെയ്താൽ അതിന് നാച്ചുറൽ ഫ്രീക്ക്വൻസി ഉണ്ടായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ അത് പിടിക്കുകയും എന്നിട്ട് ഒരു നിശ്ചിത ഫ്രിക്യുഎൻസിയിൽ ചലിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അതിൽ ഒരു മോട്ടോർ ഘടിപ്പിക്കാം തുടർന്ന് ഒരു നിശ്ചിത നിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയും അതിനാൽ ഒടുവിൽ സ്പ്രിങ് നിങ്ങൾ നിർബന്ധിക്കുന്ന നിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും കാരണം അതിന് നാച്ചുറൽ റെസ്പോണ്സ് ഉണ്ടാകില്ല പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് സ്വാഭാവിക മോഡിൽ വൈബ്രേറ്റ് ചെയ്തേക്കാം തുടർന്ന് അത് ഫോർസിങ് ഫങ്ക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റെഡി സ്റ്റേറ്റിലേക്ക് വരും ഇത് അതേ കാര്യത്തിലാണ് അതിനാൽ നാച്ചുറൽ റെസ്പോണ്സ് ഒടുവിൽ ഇല്ലാതാകും നമുക്ക് ഫോഴ്സ് റെസ്പോണ്സ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസിനെ ഫോർസ്ഡ് റെസ്പോണ്സ് എന്നും വിളിക്കുന്നു ഈ ഭാഗത്തെ നാച്ചുറൽ റെസ്പോണ്സ് എന്നും ഈ മറ്റ് പദങ്ങൾ കുറച്ച് ഞാൻ സംസാരിക്കുന്നു അത് ഒന്നുകിൽ നിങ്ങൾ അതിനെ ഫോഴ്സ് പ്ലസ് നാച്ചുറൽ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ സ്റ്റെഡി സ്റ്റേറ്റിന്റെ റെസ്പോണ്സ് പ്ലസ് ട്രാൻസിന്റ് റെസ്പോണ്സ് എന്ന് വിളിക്കുന്നു ഡിഫറൻഷ്യൽ ഈക്വാഷനുകളുടെ പദാവലിയിൽ ഇവയെ പാര്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ പാര്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു ഈ ഭാഗം ഹോമോജിനസ് ഈക്വാഷനുള്ള സൊല്യൂഷൻ ആണ് ചില സമയങ്ങളിൽ ഇതിനെ ഹോമോജിനസ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഹോമോജെനസ് സമവാക്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ എക്സ്പോണൻഷ്യൽ മൈനസ് 3 R C ചില സംഖ്യകളാൽ സ്കെയിൽ ചെയ്തിരിക്കുന്നു അത് ഇതിലും ദൃശ്യമാകും കൂടാതെ മൊത്തത്തിലുള്ള പരിഹാരം ഫോർസിങ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചിലതും ഹോമോജെനസ് ഭാഗവുമായിരിക്കും എല്ലാ ഡിഫറൻഷ്യൽ ഈക്വാഷനുകൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഫോഴ്സ് റെസ്പോൺസും നാച്ചുറൽ റെസ്പോൺസും ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ അല്പം വ്യത്യസ്തമായി തരംതിരിക്കാനും കഴിയും അത് അങ്ങനെയാണ് ചെയ്യുന്നത് അതിനാൽ Vs ഉള്ളപ്പോൾ ഞാൻ ഈ കേസിന് വേണ്ടി ഈ V c എഴുതാം ഞാൻ എല്ലാ നിബന്ധനകളും Vs ഉപയോഗിച്ചും തുടർന്ന് എല്ലാം V c 0 ലും ഗ്രൂപ്പുചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നീട് ഉപയോഗപ്രദമാകും പലർക്കും സങ്കീർണ്ണമായ സർക്യൂട്ടുകൾക്ക് പോലും നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റർ മാത്രമുള്ളിടത്തോളം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ പരിശോധനയിലൂടെ പരിഹാരം എഴുതാൻ ഞങ്ങൾക്ക് ഏറെക്കുറെ കഴിയുമെന്ന് ഞങ്ങൾ കണ്ടെത്തി അതിനാൽ ഇത് സീറോ സ്റ്റേറ്റ് റെസ്പോണ്സ് എന്നറിയപ്പെടുന്നു ഇതാണ് സീറോ ഇൻപുട്ട് റെസ്പോണ്സ് പേരുകൾ വളരെ വ്യക്തമാണ് കപ്പാസിറ്റർ വോൾട്ടേജായ കപ്പാസിറ്ററിന്റെ അവസ്ഥ പൂജ്യമാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സൊല്യൂഷന്റെ ഇടതുവശത്തുള്ള ഈ ഭാഗം ലഭിക്കും ഇൻപുട്ട് തന്നെ പൂജ്യമാണെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷന്റെ ശരിയായ ഭാഗം ലഭിക്കും അതിനാൽ ഈ മൂന്ന് വർഗ്ഗീകരണങ്ങളും ഒന്നുതന്നെയാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് വ്യത്യസ്തമായ പദാവലി ഒന്നുതന്നെയാണ് സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോണ്സ് ഫോർസ്ഡ് റെസ്പോൺസിന് സമാനമാണ് അത് പാര്ടിക്കുലർ സൊല്യൂഷൻന് സമാനമാണ് അതേസമയം ഈ സീറോ സ്റ്റേറ്റ് റെസ്പോണ്സ് ഫോർസ്ഡ് റെസ്പോൺസിന് തുല്യമല്ല അതിനാൽ ഇപ്പോൾ പോയിന്റ് സീറോ സ്റ്റേറ്റിന്റെ റെസ്പോൺസിനും സർക്യൂട്ടുമായി ബന്ധപ്പെട്ട എക്സ്പോണൻഷ്യലുകൾ ഉണ്ട് എന്നാൽ മറ്റ് സന്ദർഭങ്ങളിൽ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോണ്സ് അല്ലെങ്കിൽ ഫോർസ്ഡ് റെസ്പോണ്സ് നിർവചിക്കുമ്പോൾ അവയ്ക്ക് ഇതില്ല മൈനസ് tRC യുടെ എക്സ്പോണൻഷ്യൽ നാച്ചുറൽ റെസ്പോൺസാണ് നിങ്ങൾ ഒരു സ്പ്രിംഗ് പ്ലഗ് ചെയ്താൽ അത് ചില ആവൃത്തിയിൽ വൈബ്രേറ്റുചെയ്യുന്നത് പോലെയാണ് അത് ആ സ്പ്രിംഗിന്റെ നാച്ചുറൽ റെസ്പോൺസാണ് അതിനാൽ ഈ എക്സ്പോണൻഷ്യൽ മൈനസ് t R c ഈ സർക്യൂട്ടിന്റെ നാച്ചുറൽ റെസ്പോൺസാണ്